ഇപ്പോൾ പവർ ആംപ്ലിഫിക്കേഷൻ ലഭിക്കുന്നതിന് നമുക്ക് എന്തുചെയ്യാൻ കഴിയും സർക്യൂട്ടുകളിൽ പ്രയോഗിക്കുന്ന ഒരേയൊരു ഉറവിടമാകാൻ കഴിയാത്ത താൽപ്പര്യ സിഗ്നലുകളുടെ ഉറവിടം വളരെ വ്യക്തമാണ് കാരണം നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായും കുറവായിരിക്കും നിങ്ങൾ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജ സ്രോതസ്സും ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് ചില പ്രസക്തമായ ഇൻപുട്ട് സിഗ്നലുകൾ ഉണ്ടായിരിക്കണം v1 or vin എന്ന് പറയട്ടെ കൂടാതെ ഒരു അധിക പവർ ഉറവിടവും ഉണ്ടായിരിക്കണം അതിനാൽ എങ്ങനെയെങ്കിലും പവർ പ്രസക്തമായ സിഗ്നൽ ഉറവിടത്തിൽ നിന്ന് നിങ്ങൾ നൽകുന്ന ശക്തിയേക്കാൾ വലുതായിരിക്കണം ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഒരു ആംപ്ലിഫയർ ഒരു ബാറ്ററി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചില പവർ സ്രോതസ്സുകളിലോ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഈ പൊതു സംവിധാനം ഉണ്ട് അവ മെയിനിലേക്ക് പ്ലഗ് ചെയ്തിരിക്കുന്നു അതായത് മെയിനിൽ നിന്ന് അവർക്ക് കുറച്ച് വൈദ്യുതിയോർജ്ജം നേടാനാകും യഥാർത്ഥ സിഗ്നൽ മൈക്രോഫോണിൽ നിന്നാണ് വരുന്നതെന്ന് പറയാം അതിനാൽ ഉച്ചഭാഷിണിയിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് പവർ മൈക്രോഫോണിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതലാണ് അത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് കുറച്ച് പവർ വലിച്ചെടുത്ത് ഉച്ചഭാഷിണിയിലെ അധിക വൈദ്യുതിയോർജ്ജമായി മാറ്റുന്നത് അതിന്റെ അർത്ഥം ഇനിപ്പറയുന്നതാണ് ഞാൻ വീണ്ടും രണ്ട് പോർട്ട് നെറ്റ്വർക്ക് എടുത്ത് N ആണ് ലീനിയർ ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് അനുമാനിക്കാം ഇപ്പോൾ എനിക്ക് ഒരു സിഗ്നലിന്റെ ഉറവിടവും മറ്റൊരു അധിക വൈദ്യുതിയോർജ്ജം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഇവ രണ്ടിനെയും എളുപ്പത്തിൽ വേർതിരിച്ചറിയാൻ സിഗ്നൽ ഉറവിടം കുറച്ച് ഫ്രീക്വൻസിയുടെ സൈനസോയിഡായും അധിക പവർ സോഴ്സ് ഡിസിയായും ഞാൻ പരിഗണിക്കും ഇപ്പോൾ ഇത് വളരെ സാധാരണമായ കാര്യമാണ് പക്ഷേ ഇത് അധിക ഉറവിടം ആയിരിക്കണമെന്നില്ല ഒരു സൈനസോയിഡ് ആകാം എന്നാൽ ഏറ്റവും ലളിതമായ രൂപമാണ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഫോം അധിക പവർ ഉറവിടം DC ആണ് അതിനാൽ അതാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നത് അതിനാൽ അതായത് ഇൻപുട്ട് vi ചില പീക്ക് മൂല്യം vi cosωt ആണ് അതിനാൽ ഇത് ഒരു ലീനിയർ ടു പോർട്ട് നെറ്റ്വർക്ക് മാത്രമല്ല ഇത് നിഷ്ക്രിയവുമാണ് അതിനാൽ ഇപ്പോൾ ഔട്ട്പുട്ട് ഒരേ ആവൃത്തിയിലുള്ള ഒരു സിനുസോയിഡ് ആണ് കാരണം അത് ഒരു ലീനിയർ നെറ്റ്വർക്ക് ആണ് കൂടാതെ ലാളിത്യത്തിന് ഇത് ഒരേ ഘട്ടത്തിലാണെന്ന് ഞാൻ അനുമാനിക്കും അത് ഉണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല ഇപ്പോൾ വീണ്ടും എനിക്ക് സർക്യൂട്ടിൽ ഒരൊറ്റ സ്വതന്ത്ര ഉറവിടം ഉണ്ട് അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു വൈദ്യുതിയോർജ്ജം നൽകില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞാൻ അതിലൂടെ പോകുകയാണ് ലോഡിലേക്ക് പോകുന്ന ഈ കറന്റ് കുറച്ച് i1 cosωt ആയിരിക്കും ഈ v1 i1 v2 i2 v2 i2 തുടങ്ങിയ പോർട്ട് വേരിയബിളുകൾ നിർവചിക്കുന്നത് v1 i1 നേക്കാൾ കുറവാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഈ സർക്യൂട്ടിന് നിങ്ങൾക്ക് ഒരു പവർ ഗൈൻ നൽകാൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ സർക്യൂട്ടിലേക്ക് എവിടെയെങ്കിലും ഒരു അധിക ഊർജ്ജ സ്രോതസ്സ് ചേർക്കുക എന്നതാണ് അത് എവിടെയും ആകാം അതിൽ കാര്യമില്ല ഇതേ വാദം ബാധകമായിരിക്കും എന്നാൽ ഈ നെറ്റ്വർക്ക് ഒരു ലീനിയർ നിഷ്ക്രിയ രണ്ട് പോർട്ട് നെറ്റ്വർക്കാണെന്ന് ഓർക്കുക ഇപ്പോൾ ദൃഷ്ടാന്തത്തിന് വേണ്ടി അധിക ഊർജ്ജ സ്രോതസ്സ് ഇൻപുട്ട് ഉറവിടവുമായി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒന്നാണെന്ന് അനുമാനിക്കാം അതിനാൽ ഇതാണ് ഇൻപുട്ട് സിഗ്നൽ ഉറവിടം കൂടാതെ അധിക പവർ സ്രോതസ്സ് സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മറ്റൊരു സ്രോതസ്സാണെന്നും പറയട്ടെ ഇതിന് v10 ന്റെ മൂല്യമുണ്ടെന്ന് പറയാം അതിനാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് vo കുറച്ച് ലോഡ് കറന്റും ഉണ്ടാകും ഇതിന് vi കാരണം ഒരു ഘടകവും v10 കാരണം ഒരു ഘടകവും ഉണ്ടായിരിക്കും ഈ രണ്ട് സ്രോതസ്സുകളും ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തും എന്നതാണ് ഞാൻ പറയുന്നത് അതിനാൽ ഇത് വളരെ വ്യക്തമായ ഒരു പൊതു പ്രസ്താവനയാണ് ഇപ്പോൾ ചോദ്യം ഇൻപുട്ട് ഉറവിടം vi കാരണം ലോഡിലെ പവർ ആണോ കാരണം ഇതാണ് സിഗ്നൽ ഉറവിടം ഇത് ഉപയോഗപ്രദമായ വിവരങ്ങൾ ഉള്ള ഉറവിടമാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇതിനെ vi cosωt എന്ന് വിളിക്കുന്നു അതിനാൽ ലോഡിലെ vi മൂലമുണ്ടാകുന്ന ഘടകം ഇടതുവശത്ത് നിന്ന് നൽകുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതിയോർജ്ജമുണ്ടെങ്കിൽ ഇൻപുട്ട് ഉറവിടം എന്താണ് നൽകുന്നത് ഉത്തരം അതിന് കഴിയില്ലെന്ന് ആവുന്നു ഉത്തരം വളരെ ലളിതമാണ് കാരണം ഇതൊരു ലീനിയർ നെറ്റ്വർക്ക് ആണ് സൂപ്പർപോസിഷൻ ബാധകമാണ് എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഇത് പകർത്തട്ടെ അതിനർത്ഥം സൂപ്പർപോസിഷൻ വഴി ഇതിനുള്ള പരിഹാരം ലഭിക്കും എന്നാണ് രണ്ട് വ്യവസ്ഥകൾ എന്തൊക്കെയാണ് രണ്ട് വ്യവസ്ഥകൾ ഒന്ന് vi മാത്രം ഉള്ളതും v0 മാത്രം ഉള്ളതുമായ ഒന്ന് ഇതാണ് ലോഡ് അതിനാൽ ഇതിനുള്ള പരിഹാരം നെറ്റ്വർക്കിലേക്ക് vi മാത്രം പ്രയോഗിച്ചിരിക്കുന്ന ഇതിന്റെ സൂപ്പർപോസിഷനായി ലഭിക്കും കൂടാതെ നെറ്റ്വർക്കിൽ v10 മാത്രം പ്രയോഗിച്ച ഇവിടെ ഇത് രേഖീയത മൂലമാണ് ഇപ്പോൾ ഈ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വ്യക്തമായി പറയാം vo1 ഉം ലോഡ് കറന്റ് vL1 ഉം സിഗ്നൽ vi കാരണം മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് vo2 ഉം iL2 ഉം dc സോഴ്സ് v10 കാരണം മാത്രമാണെന്ന് പറയാം അതിനാൽ നിങ്ങൾ പവർ കണക്കാക്കുകയാണെങ്കിൽ അത് സിഗ്നൽ ഘടകത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞത് പോലെ vi is vi cosωt iL1 ഉം vo1 ഉം സിനസോയിഡ്സ് ആയിരിക്കും അവയുടെ ഉൽപ്പന്നമാണ് വൈദ്യുതിയോർജ്ജം ഈ സാഹചര്യത്തിൽ മൈനസ് v2 i2 v1 i1 നേക്കാൾ കുറവോ തുല്യമോ ആണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ സിഗ്നൽ ഘടകം മൂലമുള്ള ഔട്ട്പുട്ട് പവർ സിഗ്നൽ ഘടകം മൂലമുള്ള ഇൻപുട്ട് പവറിനേക്കാൾ കുറവോ തുല്യമോ ആണ് അതിനാൽ അതിന്റെ അർത്ഥം ഇനിപ്പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു ലീനിയർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അധിക പവർ സ്രോതസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽപ്പോലും സിഗ്നൽ ഘടകത്തിലെ ഇൻപുട്ട് പവറിനേക്കാൾ കൂടുതലായ ഒരു ഔട്ട്പുട്ട് പവർ നിങ്ങൾക്ക് സിഗ്നൽ ഘടകത്തിൽ ഉണ്ടാകില്ല നിങ്ങൾക്ക് തീർച്ചയായും ഒരു അധിക ഔട്ട്പുട്ട് പവർ ഉണ്ട് കാരണം ഇതിലുടനീളമുള്ള വോൾട്ടേജ് ഉദാഹരണത്തിന് ഈ ലോഡ് ഒരു റെസിസ്റ്ററായി നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഇതിലെ വോൾട്ടേജിന് ഇൻപുട്ട് ഉറവിടത്തിൽ നിന്നും ഡിസിയിൽ നിന്നുമുള്ള ഘടകം ഉണ്ടായിരിക്കും അതിനാൽ ഇതിൽ അധിക പവർ ഉണ്ടാകും ഉറപ്പായും ലോഡ് ചെയ്യുക പക്ഷേ അത് സിഗ്നൽ ഘടകത്തിലെ വൈദ്യുതിയോർജ്ജം വിവർത്തനം ചെയ്യപ്പെടില്ല കാരണം ലീനിയറിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് സിഗ്നലും ഡിസിയും ഉള്ള സർക്യൂട്ട് പ്രത്യേകം വിശകലനം ചെയ്യാൻ കഴിയും സിഗ്നൽ സിനുസോയിഡ് ആണെന്ന് ഞങ്ങൾ അനുമാനിക്കും അതിനാൽ വൈദ്യുതിയുടെ സിഗ്നൽ ഘടകം ഇതിൽ നിന്ന് മാത്രമേ വരൂ ലോഡ് പവറിന്റെ dc ഘടകം അതിൽ നിന്ന് മാത്രമേ വരൂ അതിനാൽ നിങ്ങൾ ഒരു അധിക ഉറവിടം ചേർത്താലും സിഗ്നൽ ഘടകത്തിൽ നിങ്ങൾക്ക് ഉയർന്ന ഔട്ട്പുട്ട് പവർ ലഭിക്കാൻ പോകുന്നില്ല ലോഡിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉയർന്ന പവർ ലഭിക്കും പക്ഷേ അത് സിഗ്നൽ ഘടകത്തിലായിരിക്കില്ല ഇപ്പോൾ ഇത് വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാൻ കഴിയും ഇത് ഒരു അധിക ഡിസി ഉറവിടം നൽകാനുള്ള ഏക മാർഗമല്ല നിങ്ങൾക്ക് ഒരു മൂന്നാം പോർട്ട് ഉപയോഗിച്ച് നൽകാം എന്നാൽ ലീനിയറിറ്റി പ്രകാരം അതേ കാര്യം തന്നെ സംഭവിക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലീനിയർ നെറ്റ്വർക്ക് മറ്റൊരു സർക്യൂട്ടിലേക്ക് വിഘടിപ്പിക്കാം അതിൽ ഒരേസമയം ഒന്ന് മാത്രം സജീവമാക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു സമയം സിഗ്നൽ ഉറവിടം മാത്രമേ സജീവമാക്കാൻ കഴിയൂ നിങ്ങൾക്ക് ഒരു സമയം ഡിസി ഉറവിടം സജീവമാക്കാം ഇതിൽ നിന്ന് സിഗ്നൽ ഘടകത്തിലെ ഔട്ട്പുട്ടിലെ പവർ നിങ്ങൾക്ക് സിഗ്നൽ ഇൻപുട്ട് മാത്രമാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമാകില്ലെന്ന് നിങ്ങൾ നിഗമനം ചെയ്യും അതിനാൽ നിങ്ങൾക്ക് സിഗ്നൽ ഇൻപുട്ട് മാത്രമേ ഉള്ളൂവെങ്കിൽ ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് പവറിനേക്കാൾ ചെറുതായിരിക്കും എന്നതായിരുന്നു മുഴുവൻ ആശയവും അതിനാൽ ഞങ്ങൾ ഒരു അധിക പവർ സ്രോതസ്സ് ചേർക്കുമെന്ന് കരുതി ഞങ്ങൾ ബാറ്ററി എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷേ സർക്യൂട്ട് ലീനിയർ ആണെങ്കിൽ അത് സഹായിക്കില്ല കാരണം സർക്യൂട്ട് ലീനിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സ്രോതസ്സുകൾ ഒരുമിച്ച് ഉണ്ടെങ്കിലും വെവ്വേറെ പ്രവർത്തിച്ചാലും ഓരോ സ്രോതസ്സിന്റെയും പ്രഭാവം അതേപടി നിലനിൽക്കും അതാണ് സൂപ്പർപോസിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനാൽ നിഷ്ക്രിയ ഉപകരണങ്ങളുടെ അർത്ഥം Pout ≤ Pin എന്നാണ് അതിനാൽ സിഗ്നൽ ഉറവിടം മാത്രമേ നിങ്ങൾക്ക് ഒള്ളൂവെങ്കിൽ അതായത് നിങ്ങൾക്കുള്ളത് ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ള ബോക്സ് ആണെങ്കിൽ പവർ ആംപ്ലിഫിക്കേഷൻ ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത് ഇൻപുട്ടിൽ സിഗ്നൽ ഉറവിടം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ഔട്ട്പുട്ട് പവർ സിഗ്നൽ ഉറവിടം നൽകുന്നതിനേക്കാൾ കുറവായിരിക്കണം അതിനാൽ അടുത്ത ആശയം ഒരു അധിക ഊർജ്ജ സ്രോതസ്സാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ അറിയാം നിങ്ങളുടെ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജെറ്റുകളും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്ക് ആംപ്ലിഫിക്കേഷൻ ആവശ്യമുള്ളതിനാലും നിങ്ങൾക്ക് ഒരു അധിക പവർ സ്രോതസ്സ് ആവശ്യമുള്ളതിനാലും ചെറിയ സിഗ്നൽ ലഭിക്കുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും അതാണ് പൊതുവായ ആശയം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഇതുവരെ കൃത്യമായി അറിയില്ലെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് പവർ സിഗ്നൽ ഘടകത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിന് പിന്നിലെ ആശയം എന്നാൽ നിങ്ങൾക്ക് ഒരു ലീനിയർ ഉപകരണം ഉണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കില്ല തീർച്ചയായും എല്ലാ ഉപകരണങ്ങളും നിഷ്ക്രിയമാണെങ്കിൽ ഈ സിഗ്നൽ ഘടകത്തിലെ ഔട്ട്പുട്ട് പവർ സിഗ്നൽ ഘടകത്തിലെ ഇൻപുട്ട് പവറിനേക്കാൾ കുറവായിരിക്കും കാരണം ഒരു ലീനിയർ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ഉറവിടവും അധിക പവർ സ്രോതസ്സുമാകുന്ന രണ്ട് സ്രോതസ്സുകൾ ഉള്ളപ്പോൾ നിങ്ങൾ ഒരു അധിക പവർ സോഴ്സ് കണക്റ്റുചെയ്തതിനാൽ സിഗ്നൽ ഉറവിടം കാരണം ഔട്ട്പുട്ടിൽ ഒരു ഫലവുമില്ല ഓരോ സ്രോതസ്സും സ്വയം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അതിനെ സൂപ്പർപോസിഷനിലേക്ക് വിഘടിപ്പിക്കുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ അധിക സ്രോതസ്സുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിഗ്നൽ ഉറവിടം മൂലമുണ്ടാകുന്ന ഔട്ട്പുട്ട് കൃത്യമായും സമാനമായിരിക്കും ഇത് അധിക ഉറവിടത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും അതിനാൽ ആംപ്ലിഫിക്കേഷനായി നിങ്ങൾക്ക് ഒരു ലീനിയർ ഉപകരണം ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ വളരെ പ്രധാനപ്പെട്ട നിഗമനം നമുക്ക് നോൺ ലീനിയർ ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നതാണ് ഇപ്പോൾ നിങ്ങളിൽ ചിലർ ഇതിനകം ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മറ്റ് ആംപ്ലിഫയിംഗ് ഉപകരണങ്ങളുമായി സമ്പർക്കം പുലർത്തിയിരിക്കാം അവ രേഖീയമല്ലെന്ന് നിങ്ങൾക്കറിയാം ഇത് ഏകപക്ഷീയമല്ല നിങ്ങൾക്ക് ലീനിയർ ഉപകരണങ്ങൾ മാത്രമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഒരിക്കലും പവർ ആംപ്ലിഫിക്കേഷൻ ലഭിക്കില്ല രേഖീയമല്ലാത്ത ഉപകരണങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് പവർ ആംപ്ലിഫിക്കേഷൻ ആവശ്യമുള്ളൂ ഇപ്പോൾ നോൺലീനിയർ സർക്യൂട്ടുകളുടെ വിശകലന രീതികൾ പഠിക്കുന്നതിനും അവ ശരിയായി മനസ്സിലാക്കുന്നതിനും ഇത് നിങ്ങൾക്ക് നല്ല പ്രചോദനം നൽകുന്നു അതിനാൽ രേഖീയമല്ലാത്ത ഉപകരണങ്ങളും നോൺലീനിയർ സർക്യൂട്ടുകളും മറ്റും വിശകലനം ചെയ്യുന്നതിനുള്ള രീതിയും പഠിക്കാനുള്ള പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ ഇനിപ്പറയുന്ന പാഠങ്ങളിൽ ഞങ്ങൾ കാണും അവ ലീനിയർ സർക്യൂട്ടുകളേക്കാൾ സങ്കീർണ്ണമാണെങ്കിലും നോൺലീനിയർ ഉപകരണങ്ങളില്ലാതെ നമുക്ക് ആംപ്ലിഫയറുകൾ ഉണ്ടാകില്ല ആംപ്ലിഫയറുകളില്ലാതെ വിവരയുഗത്തിലെ അത്ഭുതങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാകില്ല കാരണം ആംപ്ലിഫയറുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ അത്ഭുതകരമായ അനലോഗ് ഡിജിറ്റൽ സർക്യൂട്ടറികളും നിർമ്മിക്കാൻ കഴിയുക